ഈ 15 ൦ ലെക്ച്ചറിലേക്കു സ്വാഗതം ഇത് ട്യൂട്ടോറിയൽ 3 ആണ് നാം ചില പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്യുന്നതാണ് വേവ് ഗൈഡ് പിന്നെ സ്കേറ്ററിങ് പാരാമീറ്റർ എന്നിവയിലെ തുല്യ വോൾടേജ് തുല്യ കറന്റ് എന്നിവയുടെ കൺസെപ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക ആദ്യ പ്രോബ്ലം എന്നത് മോഡിലെ തുല്യ വോൾടേജ് തുല്യ കറന്റ് എന്നിവ കണ്ടു പിടിക്കാൻ ആണ് ഒരു റെക്ടാങ്കുലാർ വേവ് ഗൈഡിൽ നാം പറഞ്ഞു കഴിഞ്ഞു ഒരു മോഡ് ആണ് ഉള്ളത് ട്രാൻസ്വേർസ് ഇലെക്ട്രിക്കൽ അതായതു പിന്നെ ഇതാണ് പൊതുവായ രൂപം പിന്നെ a b എന്നിവ റെക്ടാങ്കുലാർ വേവ് ഗൈഡിന്റെ കുറുകെ ഉള്ള ഡയമെൻഷൻ ആണ് അപ്പോൾ നിങ്ങൾ എന്ന് എഴുതിയാൽ ട്രാൻസ്വേർസ് ഫീൽഡ് എന്നത് പിന്നെ എന്നിവ ആയിരിക്കു൦ ഇത് ഇൻസിഡന്റ് ഫീൽഡ് ആണ് പിന്നെ തീർച്ചയായും ഇവിടെ റിഫ്ലെക്ടഡ് ഫീൽഡ് ഉള്ളതാണ് ഇനി എന്നത് ഇതുപോലെ എഴുതാനാകുന്നതാണ് അപ്പോൾ നാം പറയുന്നു ഇവിടെ ഒരു ആംപ്ലിറ്റൂഡ് ഭാഗം ഉണ്ട് പിന്നെ ഇതാണ് എയ്ഗൻ ഫങ്ക്ഷൻ ഭാഗം ഇതാണ് Z പ്രൊപഗേഷൻ അതുപോലെ തന്നെ ഇവിടെ പ്രൊപഗേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് ഉണ്ട് നാം ലോസ് ലെസ്സ് ലൈൻ അനുമാനിക്കുന്നതിനാൽ ആയിരിക്കും അപ്പോൾ എന്നത് ഇതുപോലെ ആയിരിക്കും പിന്നെ ഇത് ഒരു കോൺസ്റ്റന്റ് ആണ് പിന്നെ ഇത് ഇനി നാം നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക്ക് ഫീൽഡ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു ഇവിടെ ആനുപാതിക കോൺസ്റ്റന്റ് എന്നത് എന്ന് എടുക്കാം ഇത് വോൾടേജ് സൈഡിലെ അളവാണ് അതുകൊണ്ടു ഇതിനെ നമുക്ക് നു ആനുപാതികമാക്കാം അത് വോൾടേജ് വേവിന്റെ മാഗ്നിറ്റൂഡ് ഭാഗമാണ് പിന്നെ എന്നത് മാഗ്നെറ്റിക് ഫീൽഡിന്റെ ഭാഗമാണ് അപ്പോൾ നാം ഇത് കറന്റിന് ആനുപാതികമാക്കി മാറ്റുന്നു അപ്പോൾ ഇവിടെ ആനുപാതിക കോൺസ്റ്റന്റ് എന്നത് ആണ് അപ്പോൾ ഇത് പിന്നെ ഇത് അവസാനം നമുക്ക് തുല്യ വോൾടേജ് കറന്റ് എന്നിവ കണ്ടെത്തണം ഇനി നാം പവറിന്റെ തുല്യത ഇവിടെ കൊണ്ടുവരണം ആദ്യം ഉള്ള ഡെഫിനിഷൻ വച്ച് ഫീൽഡിൽ നിന്നു൦ കണ്ടെത്തുക ഇവിടെ ഇൻസിഡന്റ് പവർ എത്രയാണ് ഈ സ്റ്റെപ്പുകൾ എല്ലാം നിങ്ങൾക്കായി ചെയ്തിട്ടുണ്ട് ഇത് പോയിന്റിങ്ങ് വെക്റ്ററിന്റെ S ലൂടെയുള്ള ഇന്റഗ്രേഷൻ ആണ് അത് ഇവിടെ ഗൈഡിന്റെ ട്രാൻസ്വേർസ് ക്രോസ്സ് സെക്ഷൻ ആണ് അപ്പോൾ ഒരു റെക്ടാങ്കുലാർ വേവ് ഗൈഡിൽ ഇത് x എന്നത് 0 മുതൽ a വരെയും Y എന്നത് 0 മുതൽ b വരെയുമാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടതു ഇതാണ് ഈ പറഞ്ഞ കാര്യം ആവറേജ് പവർ എന്നതിന് തുല്യമായിരിക്കും അത് പവറിനു തുല്യമായ ഭാഗമായിരിക്കും അപ്പോൾ ഈ ബന്ധവുമായി ഇതിനെ തുല്യപ്പെടുത്തിയാൽ അത് എന്ന് വരും ഇവിടെ എന്നത് ആണ് അതിന്റെ അർഥം ഇനി എന്നിവ കോൺസ്റ്റന്റ് ആണ് എന്ന പ്രോഡക്റ്റ് ആണ് ഇതിനെ നാം സമവാക്യം 1 എന്ന് പറയുന്നു ഇനി അടുത്ത ഭാഗം എന്നത് ഇമ്പിഡൻസ് തുല്യത ആണ് അപ്പോൾ ഈ ഇമ്പിഡൻസ് എന്നത് നമുക്ക് രണ്ടു മാർഗങ്ങൾ ഉണ്ടെന്നു നാം മുമ്പ് പറഞ്ഞതാണ് ഒന്നുകിൽ നമുക്ക് ഇതിനെ മോഡ് വേവ് ഇമ്പിഡൻസ് എന്നതുമായി തുല്യപ്പെടുത്താം അല്ലെങ്കിൽ അതിനെ 1 ആക്കാം നാം ഈ രണ്ടാമത്തേത് എടുക്കുന്നു അപ്പോൾ ഇത് 1 ആണ് എന്ന് പറയുന്നു അപ്പോൾ അത് താഴെ പറയുന്നത് പോലെ ആകുന്നു ഇവിടെ ഇത് മൈനസ് ആണ് എന്തെന്നാൽ പവർ എന്നത് ഒഴുകുക പിന്നെ ആയാണ് അപ്പോൾ ഒന്ന് മറ്റൊന്നിനു ഓപ്പോസിറ്റ് ആയിരിക്കണം അപ്പോൾ പവർ എന്നത് y ക്രോസ്സ് x ആണ് അത് അല്ലെങ്കിലും നെഗറ്റീവ് ആണ് പിന്നെ മറ്റൊരു നെഗറ്റീവും വേണം അപ്പോൾ ഈ ഇൻസിഡന്റ് വേവ് എന്ന ഭാഗം ഈ പോസിറ്റീവ് z ദിശയിലാകും ഒഴുകുക ഇനി നാം C1 C2 എന്ന് എഴുത്തുകയാണെങ്കിൽ നിങ്ങൾക്കു 1 ബൈ പിന്നെ ഇത് എന്ന് കിട്ടും ഈ എന്നത് ഇന്ററിൻസിക് ഇമ്പിഡൻസ് ബൈ ഈ അളവ് എന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കു രണ്ടു സമവാക്യങ്ങൾ ഉണ്ട് എന്നിവ നമുക്ക് അറിയില്ല അപ്പോൾ രണ്ടു സമവാക്യങ്ങൾ പിന്നെ രണ്ടു അൺനോൺ അത് നമുക്ക് സോൾവ് ചെയ്യാം അപ്പോൾ എന്നത് ഇതും പിന്നെ എന്നത് ഇതും കിട്ടും അപ്പോൾ അനുസരിച്ചു നിങ്ങൾക്കു ഈ ഉത്തരമാണ് ലഭിക്കുക ഇത് ലളിതമാണ് ഒരിക്കൽ എന്നിവ നമുക്ക് ലഭിച്ചാൽ നാം നേരത്തെ എഴുതിയത് പോലെ എഴുതാനാകും അതായതു ഒരിക്കൽ എന്നിവ എഴുതിയാൽ നമുക്ക് എന്നത് മോഡിൽ എഴുതാം നിങ്ങൾക്കറിയാം ഈ വാല്യൂ ഇവിടെ ആണ് ഇതിൽ എന്നത് ഇവിടെ നിന്നും ലഭിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലെത്തിലേക്കു കടക്കാം വോൾടേജ് കറന്റ് എന്നിവ എങ്ങനെ നിർവചിക്കണം എന്ന് നാം കണ്ടു ഇനി സ്കേറ്ററിങ് പാരാമീറ്റർ നോക്കാം

ഈ പാരാമീറ്റർ അനുമാനിക്കുക ഇവിടെ ഉള്ള വാല്യൂകളിൽ ചെറിയ തെറ്റുണ്ട് എന്നാൽ ശരിയായ വാല്യൂ ഈ സ്ലൈഡിൽ ആണ് അതാണ് ഒരു 2 പോർട്ട് നെറ്റ്വർക്കിലെ സ്കേറ്ററിങ് പാരാമീറ്റർ ഇവിടെ തന്നിരിക്കുന്നു ഇനി നമുക്ക് ഇത് ലോസ്ലെസ്സ് അതോടൊപ്പം റേസിപ്രോക്കൽ ആണോ എന്ന് നിർണയിക്കണ൦ നമുക്കറിയാം റേസിപ്രോക്കൽ ആകണമെങ്കിൽ S എന്നത് സിമെട്രിക് ആയിരിക്കണം അതായതു S പിന്നെ S ട്രാൻസ്പോസ് എന്നിവ തുല്യമായിരിക്കണം അതുപോലെ ലോസ്ലെസ്സ് ആകണമെങ്കിൽ ഇത് യൂണിറ്ററി ആകണം അപ്പോൾ അതിനനുസരിച്ചു അത് നാം മാറ്റണം അതായത് പോർട്ട് 1 എന്നത് ഒരു മാച്ച് ലോഡ് വച്ച് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പോർട്ട് 2 യിലെ റിട്ടേൺ ലോസ് എന്നത് എത്രയായിരിക്കും ഇനി മൂന്നാമത്തെ ഭാഗം എന്നത് ഒരു ഷോർട് സർക്യൂട് വച്ചാണ് ടെർമിനേറ്റ് ചെയ്തതെങ്കിൽ പോർട്ട് 1 ലെ റിട്ടേൺ ലോസ് എന്നത് എത്രയായിരിക്കും ഇതിൽ നമുക്ക് ആദ്യത്തെ ഭാഗം നോക്കാം ഇവിടെ S മാട്രിക്സ് എന്നത് കൃത്യമായി എഴുതിയിരിക്കുന്നു അപ്പോൾ ലോസ് ലെസ്സ് നെറ്റ്വർക്കിൽ യൂണിറ്ററി സവിശേഷത നിറവേറ്റിയിരിക്കണം അതായത് ഒരു റോ അതെ റോ ആയി കോൺജൂഗെറ്റ് ചെയ്താൽ നമുക്ക് 1 കിട്ടണം നമുക്ക് ഈ റോ എടുക്കാം അപ്പോൾ 0 15 സ്ക്വയർ എന്നതിനെ കോൺജൂഗെറ്റ് ചെയ്തു ഈ കോൺജൂഗെറ്റുകളുമായി ഡോട്ട് ചെയ്യുന്നു അതിന്റെ അർഥം ഇത് എന്ന് കിട്ടുന്നു അപ്പോൾ ആ വാല്യൂ നമുക്ക് 0 75 എന്ന് കിട്ടുന്നു അത് 1 അല്ല അതായത് അത് ഒരു ലോസ് ഉള്ള നെറ്റ്വർക്ക് ആണ് അതായതു അത് ലോസ് ലെസ്സ് അല്ല എന്നാൽ അത് റേസിപ്രോക്കൽ ആണോ അതിനായി ഇത് സിമെട്രിക് ആണോ എന്ന് നോക്കണം അതായതു ഇത് തന്നെ ആണോ ഇതിന്റെ ട്രാൻസ്പോസ് ഇതിന്റെ ട്രാൻസ്പോസ് എന്നത് എത്രയാണ് ട്രാൻസ്പോസ് എന്നാൽ റോ കോളം ആയി മാറുന്നു അപ്പോൾ ഇതാണ് പുതിയത് അത് സെയിം ആണോ അല്ല നിങ്ങൾക്കു കാണാം ഇവിടെ 45 ആണ് എന്നാൽ 45 ആകേണ്ടതാണ് അപ്പോൾ ഈ നെറ്റ്വർക്ക് റേസിപ്രോക്കൽ അല്ല അപ്പോൾ ഈ നെറ്റ്വർക്ക് ലോസ് ലെസ്സ് അല്ല അതുപോലെ റേസിപ്രോക്കലും അല്ല പോർട്ട് 1 എന്നത് മാച്ച് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ നമുക്കറിയാം ഈ പോർട്ട് 2 ലെ റിട്ടേൺ ലോസ് എന്നത് ആണ് റിട്ടേൺ ലോസ് എന്നത് ഒരു സ്കേലാർ ക്വൻഡിറ്റി ആണ് അത് ആണ് പോർട്ട് 1മാച്ച് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ പോർട്ട് 2 ലെ റിട്ടേൺ ലോസ് എന്നത് 14 dB ആണ് ഇത് വളരെ ലളിതമാണ് ഇനി സൊല്യൂഷൻ c പറയുന്നത് പോർട്ട് 2 ഷോർട് ചെയ്താൽ പോർട്ട് 1 ലെ റിട്ടേൺ ലോസ് എന്നത് എത്രയായിരിക്കും അപ്പോൾ പോർട്ട് 2 എന്നത് ഷോർട് ആണ് അതിന്റെ അർഥം പിന്നെ ഇനി ഈ വാല്യൂ നമുക്കു കൊടുക്കണം

ഇതിൽ നിന്നും എനിക്ക് എന്നത് സോൾവ് ആക്കാൻ പറ്റും ഇനി മറ്റേ S മാട്രിക്സ് സമവാക്യത്തിലേക്കു പോകുക ഇത് ആണ് ഈ എന്നതിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു ഇനി എല്ലാം തന്നെ പിന്നെ എന്നതിന്റെ രൂപത്തിൽ ആണ് അപ്പോൾ എനിക്ക് ഇവിടെ അനുപാതം എടുക്കാനാകുന്നതാണ് പൊതുവെ പറയുകയാണെങ്കിൽ അതാണ് പോർട്ട് 1 ലെ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് അത് ആണ് നിങ്ങൾക്കു കാണാം റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നത് അല്ല എന്നാൽ ഈ ഭാഗങ്ങൾ 0 ആകുമ്പോൾ അത് എന്ന് കിട്ടും അത് പോർട്ട് 2 മാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഞാൻ ഈ പോർട്ട് 2 മാച്ച് ചെയ്യുകയാണെങ്കിൽ പോർട്ട് 2 ൽ നിന്നും പോർട്ട് 1 ലേക്ക് ഒന്നും വരില്ല അപ്പോൾ എന്നത് 0 ആകുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ 0 ആകുന്നു അങ്ങനെ ഇവ തുല്യമാകുന്നു എന്നാൽ ഇപ്പോൾ അത് അങ്ങനെ അല്ല എന്തെന്നാൽ ഇപ്പോൾ ഈ പോർട്ട് 2 എന്നത് മാച്ച് ചെയ്തിട്ടില്ല ഈ പോർട്ട് 2 ഷോർട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്നത് ഇതാണ് ഈ വാല്യൂ എന്നത് S മാട്രിക്സ് ൽ നിന്നും കണ്ടെത്താനാകും അപ്പോൾ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് അറിയാമെങ്കിൽ റിട്ടേൺ ലോസ് എത്രയെന്നു കണ്ടെത്താം പിന്നെ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് കോംപ്ലക്സ് അളവാണ് അതുപോലെ റിട്ടേൺ ലോസ് എന്നത് സ്കേലാർ ആണ് അപ്പോൾ ഈ എന്നതിന്റെ മാഗ്നിറ്റൂഡ് അതിന്റെ ലോഗ് ആണ് നാം ഇവിടെ 3 ഭാഗം സോൾവ് ചെയ്തു അപ്പോൾ S പാരാമീറ്റർ അറിയാമെങ്കിൽ നെറ്റ്വർക്കിന്റെ സവിശേഷത കണ്ടെത്താനാകും അതായതു അത് ലോസ് ലെസ്സ് ആണോ റേസിപ്രോക്കൽ ആണോ എന്നിങ്ങനെ പിന്നെ പല പോർട്ട് കണ്ടിഷനുകൾ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നിവയും ഉണ്ട് ഇവിടെ നാം ചെയ്തതത് ഒരു പോർട്ട് മാച്ച് ടെർമിനേറ്റ് ചെയ്തിട്ട് മറ്റേ പോർട്ടിലെ റിട്ടേൺ ലോസ് കണ്ടെത്തി എന്നതാണ് ഒരു പോർട്ട് നമ്മൾ ഷോർട് ചെയ്യുന്നു പിന്നെ മറ്റേ പോർട്ടിൽ റിട്ടേൺ ലോസ് കാണുന്നു ഇനി മൂന്നാമത്തെ പ്രോബ്ലം നോക്കുക അത് ഇനി പറയുന്ന 2 പോർട്ട് നെറ്റ്വർക്കിന്റെ S മാട്രിക്സ് ആണ് ഇനിയും നമുക്ക് ഈ നെറ്റ്വർക്ക് ലോസ് ലെസ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ഇത് പൂർണമായും ല൦ബ്ഡ് എലമെന്റ് കേസ് ആണ് അപ്പോൾ ഇവിടെ Z മാട്രിക്സ് കണ്ടു പിടിക്കാനാണ് എളുപ്പം ഇത് ലളിതമായ T നെറ്റ്വർക്ക് ആണ് അതിന്റെ Z മാട്രിക്സ് എന്നത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താനാകും ഇനി ഈ Z മാട്രിക്സിൽ നിന്നും ഫോർമുല ഉപയോഗിച്ച് S മാട്രിക്സ് കണ്ടെത്താനാകും അതല്ല എങ്കിൽ S മാട്രിക്സ് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്കു റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് കണ്ടുപിടിക്കേണ്ടി ഇരിക്കുന്നു അങ്ങനെ പലതും അത് നിങ്ങൾക്കു ചെയ്യാം എന്നാൽ അത് കുറച്ചു കുഴപ്പം പിടിച്ച കാര്യമാണ് എന്നാൽ നിങ്ങൾക്കു നേരെ Z മാട്രിക്സിലേക്കു പോകാവുന്നതാണ് നിങ്ങൾ Z മാട്രിക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും അത് നിങ്ങൾ മുമ്പ് പഠിച്ച അറിവ് വച്ച് മനസ്സിലാക്കാനാകുന്നതാണ് ഒരു നെറ്റ്വർക്കിന്റെ Z മാട്രിക്സ് എങ്ങനെ കണ്ടെത്താം ഇതാണ് Z മാട്രിക്സ് Z മാട്രിക്സ് കണ്ടെത്തിയാൽ നിങ്ങൾക്കു ഈ ഫോർമുല ഉപയോഗിക്കാം അത് ചെയ്യുക എന്തന്നാൽ ഇത് ലളിതമായ മാട്രിക്സ് അൽജിബ്ര ആണ് അപ്പോൾ അത് ഇങ്ങനെ ആകും നിങ്ങൾക്കു കാണാം ചില ബുക്കിൽ അത് തെറ്റായാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇത് കറക്റ്റ് ഉത്തരമാണ് ഇനി ഈ നെറ്റ്വർക്ക് ലോസ് ലെസ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ഇതിന് നിങ്ങൾക് യൂണിറ്ററി പ്രോപ്പർട്ടി പ്രയോഗിക്കാവുന്നതാണ് അത് യൂണിറ്ററി അല്ല എന്ന് നിങ്ങൾക്കു മനസ്സിലാകും അപ്പോൾ അത് ഒരു ലോസ് ഉള്ള നെറ്റ്വർക്ക് ആണ് അപ്പോൾ തീർച്ചയായും ഈ നെറ്റ്വർക്ക് എന്നത് റെസിസ്റ്റീവ് ആണ് അതിൽ നിന്നും പറയാം ഇത് ലോസ് ഉള്ള നെറ്റ്വർക്ക് ആണ് എന്ന് എന്നാൽ മാത്തമറ്റിക്കൽ ആയി അത് തെളിയിക്കേണ്ടതുണ്ട് അതിനാലാണ് ഇങ്ങനെ ചെയ്തത് ഇനി ഇത് രണ്ടു വശത്തും ക്യാരക്റ്ററിസ്റ്റിക് ഇമ്പിഡൻസ് 50 ഓം ആയുള്ള 2 പോർട്ട് നെറ്റ്വർക്ക് ആണ് പിന്നെ ഇത് പല പോർട്ട് വോൾട്ടേജും കറന്റും ആണ് ഇതിൽ നിന്നും ഓരോ പോർട്ടിലേയും ഇൻപുട് ഇമ്പിഡൻസ് കണ്ടെത്തേണ്ടതാണ് അതിൽ ഇന്നും ഇൻസിഡന്റ് പിന്നെ റിഫ്ലെക്ടഡ് വോൾട്ടേജുകൾ കണ്ടെത്തണം അപ്പോൾ അത് രണ്ടു പോർട്ടിലും കൊടുക്കേണ്ടതാണ് അപ്പോൾ പോർട്ട് 1 ലെ ഇമ്പിഡൻസ് എന്നത് സെൽഫ് ഇമ്പിഡൻസ് എന്നത് വോൾട്ടേജിന്റെയും കറന്റിന്റെയും അനുപാതമായി എഴുതാം ഇനി പോർട്ട് 2 ആണ് നോക്കുന്നതെങ്കിൽ സെൽഫ് ഇമ്പിഡൻസ് എന്നത് ആയിരിക്കും ഇനി വോൾടേജ് ഇനി പോർട്ട് 1 ലെ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നത് നിങ്ങൾക്കറിയാം പിന്നെ എന്നത് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്ന് തന്നിരിക്കുന്നു അപ്പോൾ ഇനി ഈ ഇമ്പിഡൻസുകൾ നോക്കിയാൽ നിങ്ങൾക്കു കണ്ടെത്താം അപ്പോൾ നിങ്ങൾക്കു പറയാം എന്നത് തീർച്ചയായും 0 പിന്നെ എന്നത് ആയിരിക്കും അതുപോലെ താഴെ പറയുന്നതും കണ്ടെത്താനാകും എന്താണത്

അങ്ങനെ ഈ പ്രോബ്ലം നാം സോൾവ് ചെയ്തു കഴിഞ്ഞ പ്രോബ്ലെത്തിൽ നാം ലോസ് ലെസ്സ് ട്രാൻസ്മിഷൻ ലൈനിന്റെ S മാട്രിക്സ് ആണ് കണ്ടെത്തിയത് ഇതൊരു ഡിസ്ട്രിബൂറ്റഡ് ലൈൻ ആണ് അപ്പോൾ അതിൽ S മാട്രിക്സ് 1 GHz ൽ കണ്ടെത്തുക എളുപ്പമാണ് നമുക്ക് ഈ ലൈനിന്റെ ലെങ്ത് എന്നത് 7 5 cm ആണെന്ന് ഊഹിക്കാം ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്നത് Z൦ ആണ് അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്മിഷൻ ലൈൻ എന്നതിനെ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ആയി കണക്കാക്കാം അപ്പോൾ S പാരാമീറ്റർ എന്നത് നാം മുമ്പ് പറഞ്ഞത് പോലെ ആയിരിക്കും അതിൽ എന്നത് ഇതാണ് ഇവിടെ പോർട്ട് 2 എന്നത് മാച്ച് ടെർമിനേറ്റ് ആണ് ഇവിടെ അത് ലാംഡ ആണ് അപ്പോൾ 1 GHz ആണെങ്കിൽ ലാംഡ എന്നത് 30 സെന്റി മീറ്റർ ആയിരിക്കും അപ്പോൾ 7 5 സെന്റി മീറ്റർ എന്നത് ആയിരിക്കും അപ്പോൾ ഇലെക്ട്രിക്കൽ ലെങ്ത് എന്നത് ആണ് അതായതു അത് ഫേസ് കോൺസ്റ്റന്റ് ആണ് അപ്പോൾ ഓർക്കേണ്ടത് ക്വാർട്ടർ വേവ് ലൈനിന്റെ ഇലെക്ട്രിക്കൽ ലെങ്ത് എന്നത് അഥവാ 90 ഡിഗ്രി ആയിരിക്കും എന്നതാണ് ഇനി ഈ പോർട്ടിൽ പിന്നെ എന്നിവ എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾക്കു പോർട്ട് 2 നെ മാച്ച് ടെർമിനേറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ നാം കണക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത അതെ നിമിഷം ഇവിടെ ആകുന്നു അപ്പോൾ ഇവിടേയ്ക്ക് സിഗ്നൽ വരികയാണ് ഒന്നും പോകുന്നില്ല ഇവിടെ എന്നത് 0 ആണ് അതുപോലെ ആണെങ്കിലും 0 ആകും എന്താണ് ഈ അത് ഇവിടെ നിന്നും വരുന്നതാണ് എന്തെന്നാൽ ഇവിടെ നിന്നുമാണ് നിങ്ങൾ എക്സൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വേവ് എന്നത് ഇവിടെ വരുന്നു L നീളം ഉള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ അതായതു ലോസ് ഇല്ലാത്ത ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ വേവ് എന്നത് ൽ നിന്നും തുടങ്ങുന്നു പിന്നെ l ദൂരം യാത്ര ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ഫേസ് എന്നത് ആകുന്നു അതാണ് നാം എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് കിട്ടുന്ന നിമിഷം നിങ്ങൾക്കു കണ്ടുപിടിക്കാനാകുന്നതാണ് ഈ കണ്ടിഷനിൽ നമ്മൾ ഇവിടെ ആണ് നാം അത് ഇവിടെ വ്യക്തമാക്കി പറയുന്നില്ല അതുകൊണ്ടു എന്തെന്നാൽ ഇവിടെ 0 ആണ് പിന്നെ അപ്പോൾ നിങ്ങൾക്കു S പരാമീറ്ററിന്റെ ആദ്യത്തെ റോ കോളം എന്നിവ കിട്ടി ഇനി നമുക്ക് രണ്ടാമത്തേത് നോക്കാം നിങ്ങൾക്കു ഇവിടെ പോർട്ട് 1 എന്നത് മാച്ച് ചെയ്യേണ്ടതാണ് പോർട്ട് 1 മാച്ച് ടെർമിനേറ്റ് ചെയ്തു എന്ന് വച്ചാൽ എന്നതാണ് ആ നിമിഷം നിങ്ങൾക്കു കാണാം എന്നത് 0 ആണ് അത് പോലെ എന്നതും 0 ആണ് ഇനി ഈ കേസിൽ ഇവിടെ നിന്നുമാണ് എക്സൈറ്റ് ചെയ്യുന്നത് ഈ എന്നത് എത്ര ഉണ്ടാകും പിന്നെ ഇവിടെ അത് ആകുന്നു അപ്പോൾ ഈ എന്നിവ തമ്മിലുള്ള ബന്ധം എന്താണ് ട്രാൻസ്മിഷൻ ലൈനിൽ വേവ് എന്നത് ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്കു പോകുന്നു അത് കിട്ടിയാൽ ഇനി കണ്ടു പിടിക്കുക ഇനി ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ എന്നത് S മാട്രിക്സ് ആയി എഴുതിയിരിക്കുന്നു അതായതു ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആയ ട്രാൻസ്മിഷൻ ലൈൻ നിങ്ങളുടെ റഫറൻസ് ഇമ്പിഡൻസ് എന്നതും ആയിരിക്കും ഈ പോർട്ട് 1 ൽ റിഫ്ലക്ഷൻ ഇല്ല അതുപോലെ പോർട്ട് 2 ൽ റിഫ്ലക്ഷൻ ഇല്ല എന്നാൽ അതിൽ ട്രാൻസ്മിഷൻ ഉണ്ട് അതുകൊണ്ടാണ് അതിനെ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് എന്നാൽ ഒരു ക്വാർട്ടർ വേവ് ലൈനിൽ നിങ്ങൾക്കു ഫോർവേഡ് അഥവാ ഇൻസിഡന്റ് വേവ് പിന്നെ റിഫ്ലെക്ടഡ് വേവ് എന്നിവ ഉണ്ട് അവ തമ്മിലുള്ള ഫേസ് എന്നത് j ആണ് ഇനി ഈ j ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കു ഈ ലൈൻ മാറ്റേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്കു ക്വഡ്രെചർ അല്ലാത്ത സംഗതി ആയിരിക്കും ലഭിക്കുക അത് സ്കേറ്ററിങ് പരാമീറ്ററിന്റെ രൂപത്തിൽ ആയിരിക്കും കൊടുക്കുക ഇനി നിങ്ങൾ അതിന്റെ Z പാരാമീറ്റർ കണ്ടെത്തുക നാം മുമ്പ് ഉപയോഗിച്ച ഫോർമുല ഉപയോഗിക്കാം ഞങ്ങൾ ഇവിടെ S പാരാമീറ്റർ തന്നു ഇനി Z പാരാമീറ്റർ നിങ്ങൾ കണ്ടെത്തുക S പാരാമീറ്റർ ഇവിടെ നേരെ കണ്ടെത്താൻ എളുപ്പമാണ് എന്തെന്നാൽ ഇത് ഒരു ഡിസ്ട്രിബൂറ്റഡ് ലൈൻ ആണ് ഇവിടെ വേവ് ആണ് കൂടുതൽ പ്രധാനം ഒരു മൈക്രോവേവ് എഞ്ചിനീയർ അറിയേണ്ട എല്ലാ തരം പ്രശ്നങ്ങളും ഇവിടെ നാം പറഞ്ഞു അതായത് പല നെറ്റ്വർക്കുകളുടെ S പാരാമീറ്റർ കണ്ടെത്തുക ആ അളവുകൾക്കായി നിങ്ങൾക്കു നെറ്റ്വർക്ക് അനലൈസർ ഉപയോഗിക്കാം